അടുത്തതായി നമ്മൾ വിവരിക്കുന്ന പ്രധാന കാര്യം സോർട്ടിംഗാണ് കമ്പ്യൂട്ടർ സയൻസിലെ ഏറ്റവും അടിസ്ഥാനപരമായ ജോലികളിൽ ഒന്നാണ് സോർട്ടിംഗ് ഡാറ്റാബേസുകളും വ്യത്യസ്തമല്ല പിന്നെ സോർട്ടിംഗിന് വ്യത്യസ്ത വഴികളുണ്ട് ഡിസ്പ്ലേ ആവശ്യങ്ങൾക്കായി സോർട്ടിംഗ് സാധാരണയായി ചെയ്യുന്നു ഓർക്കുക SQL ലെ ORDER BY കണ്ടിഷൻ ഓർക്കുക റിലേഷണൽ അൽജിബ്ര സെറ്റുകൾ നിർമ്മിക്കുന്നു അതിനാൽ സോർട്ടിംഗിന് ഇവിടെ സാധുതയില്ല പക്ഷേ ഡിസ്പ്ലേ ആവശ്യങ്ങൾക്ക് ഇത് ഉപയോഗപ്രദമാണ് എന്നിരുന്നാലും ഇത് ഡിസ്പ്ലേ Display കാര്യത്തിൽ മാത്രമല്ല ഉപയോഗപ്രദമാകുന്നത് അത് മറ്റു കാര്യങ്ങളിലും ഉപയോഗപ്രദമാകാം കാരണം ട്യൂപ്പിളുകൾ ഒരു സോർട്ടഡ് ഓർഡറിൽ ആയിരിക്കും സൃഷ്ടിക്കുക കൂടാതെ പിന്നീട് മറ്റു ക്വയറി എക്സ്പ്രെഷൻസിനു ഫീഡ് ചെയ്യാനാകുന്ന ഒരു ഇന്റർമീഡിയറ്റ് റിസൽറ്റിലായിരിക്കും ഈ ട്യൂപ്പിളുകൾ ട്യൂപ്പിളുകൾ ഒരു സോർട്ടഡ് ഓർഡറിൽ നിർമ്മിക്കുകയാണെങ്കിൽ അത് പിന്നീട് ക്വയറി അൽഗോരിതത്തിൽ സഹായകമാകും അതിനാൽ ഡാറ്റാബേസുകളും വളരെ പതിവായി ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് സോർട്ടിംഗ് വ്യത്യസ്ത തരം സോർട്ടിംഗുകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം ആദ്യമായി ഇത് മനസിലാക്കുക ഇൻഡക്സ് സാധാരണയായി ട്യൂപ്പിൾസിനെ തരംതിരിച്ച് സംഭരിക്കുന്നു എന്നാൽ ഇൻഡക്സ് ലോജിക്കൽ വ്യൂ മാത്രമേ നൽകുന്നുള്ളൂ കാരണം ഇതിന് യഥാർത്ഥ ട്യൂപ്പിളുകളിലേക്കുള്ള പോയിന്ററുകൾ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ അതിനാൽ ഇത് ഒരു ലോജിക്കൽ വ്യൂ മാത്രമാണ് അതേസമയം ഇവിടെ സോർട്ടിങ് എന്നതിനർത്ഥം നമുക്ക് ഫിസിക്കലി സോർട് ചെയ്ത ട്യൂപ്പിളുകൾ വേണമെന്നാണ് അതിനാൽ ഇൻഡക്സ് ഔട്ട്പുട്ട് ചെയ്യുന്നതിൽ നിന്നും മറ്റും വ്യത്യാസമുണ്ട് അതിനാൽ സോർട്ടിംഗ് ചെയ്യാൻ രണ്ട് വ്യത്യസ്ത വഴികളുണ്ട് ട്യൂപ്പിളുകൾ മെമ്മറിയിൽ ഫിറ്റ് ആകുമ്പോൾ അതായത് എല്ലാ ട്യൂപ്പിളുകളും മെമ്മറിയിൽ ഫിറ്റ് ആകുമ്പോൾ അപ്പോൾ ക്വിക്ക് സോർട്ട് ഉപയോഗിക്കാം ക്വിക്ക് സോർട്ട് അൽഗോരിതം എന്താണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം എന്ന് ഞാൻ അനുമാനിക്കുകയാണ് മെമ്മറിയിൽ ഫിറ്റ് ആകുമ്പോൾ ക്വിക്ക് സോർട്ട് ഉപയോഗിക്കാം എന്നിരുന്നാലും അത് മെമ്മറിയിൽ ഫിറ്റ് ആവാത്തപ്പോൾ ക്വിക്ക് സോർട്ട് ഒരു നല്ല അൽഗോരിതം അല്ല തുടർന്ന് ചെയ്യുന്നത് മെർജ് സോർട്ട് അൽഗോരിതം ആണ് എന്നാൽ ഈ മെർജ് സോർട്ട് നമ്മൾ പഠിച്ച ബേസിക് മെർജ് സോർട്ട് അല്ല ഇതൊരു ട്വിസ്റ്റോടു കൂടിയ മെർജ് സോർട്ട് ആണ് ഇതിനെ എക്സ്ടെർണൽ മെർജ് സോർട്ട് അൽഗോരിതം എന്ന് വിളിക്കുന്നു അടുത്തതായി എക്സ്ടെർണൽ മെർജ് സോർട്ട് അൽഗോരിതം എന്താണെന്നു നമുക്ക് പരിശോധിക്കാം എക്സ്ടെർണൽ മെർജ് സോർട്ടിനെ ചിലപ്പോൾ എക്സ്ടെർണൽ സോർട്ട് മെർജ് എന്നും വിളിക്കുന്നു ഇത് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന അതേ പേരാണ് അതിനാൽ നമ്മൾ അടുത്തതായി പഠിക്കാൻ പോകുന്നത് എന്താണ് എക്സ്ടെർണൽ മെർജ് സോർട്ട് അൽഗോരിതം എന്നാണ് അതിനാൽ എക്സ്ടെർണൽ മെർജ് സോർട്ട് അൽഗോരിതം എന്താണെന്ന് നമുക്ക് പഠിക്കാം ഇപ്പോൾ ബ്ലോക്കുകൾ മാത്രമേ മെമ്മറിയിൽ ഉൾക്കൊള്ളാൻ കഴിയൂ എന്ന് കരുതുക റിലേഷന്റെ വലുപ്പം തീർച്ചയായും ബ്ലോക്കുകളേക്കാൾ കൂടുതലാണ് അതുകൊണ്ടാണ് ഈ റിലേഷൻ പൂർണമായും മെമ്മറിയിൽ ഉൾക്കൊള്ളാൻ കഴിയാത്തത് അതിനാൽ ചെയ്യുന്നത് സോർട്ടഡ് റൺസ് നിർമ്മിക്കുന്നു എന്നതാണ് ഇപ്പോൾ ഒരു റൺ എന്നത് ഇനിപ്പറയുന്ന രീതിയിലാണ് ചെയ്യുന്നത് അതിനാൽ ആദ്യം എല്ലാ ബ്ലോക്കുകളും ഒരേ സമയം റീഡ് ചെയ്യുന്നു തുടർന്ന് അവ ഏതെങ്കിലും അൽഗോരിതം ഉപയോഗിച്ച് മെമ്മറിയിൽ സോർട് ചെയ്യുന്നു നമുക്ക് ക്വിക്ക് സോർട് എന്ന് പറയാം മെമ്മറിയിൽ സോർട് ചെയ്ത ഏതെങ്കിലുമാവട്ടെ തുടർന്ന് ഈ ബ്ലോക്കുകൾ തിരികെ റൈറ്റ് ചെയ്യുന്നു അതിനാൽ ബ്ലോക്കുകളുടെ ഓരോ റണ്ണിനും ചെയ്യുന്ന മൂന്ന് ഘട്ടങ്ങളാണിവ അതിനാൽ എന്താണ് ചെയ്യുന്നത് എന്നാൽ ബ്ലോക്കുകൾ റീഡ് ചെയ്യുന്നു ആദ്യ ബ്ലോക്കുകൾ റീഡ് ചെയ്യുന്നു തുടർന്ന് അവ വീണ്ടും മെമ്മറിയിൽ സോർട് ചെയ്യുന്നു തുടർന്ന് അവ തിരികെ റൈറ്റ് ചെയ്യുന്നു എന്നിവയാണ് അതിനുശേഷം അത് റൺ ചെയ്തുകഴിഞ്ഞാൽ അടുത്ത സെറ്റ് ബ്ലോക്കുകൾ റീഡ് ചെയ്യുന്നു തുടർന്ന് അവ വീണ്ടും മെമ്മറിയിൽ സോർട് ചെയ്യുന്നു തുടർന്ന് അവ തിരികെ റൈറ്റ് ചെയ്യുന്നു അത് തുടരുന്നു അതിനാൽ അടിസ്ഥാനപരമായി ഇതിനെ ഒരു റൺ എന്ന് വിളിക്കുന്നു ഇതാണ് ഓരോ റണ്ണിനും ബ്ലോക്കുകൾ റീഡ് ചെയ്യുകയും സോർട് ചെയ്യുകയും ചെയ്യുന്നു അതിനാൽ ഇത് ആദ്യ സ്റ്റെപ് ആണ് അതിനുശേഷം മെർജ് സ്റ്റെപ് വരുന്നു അതായത് ഒരേ സമയം റൺസ് മെർജ് ചെയ്യുന്നു ഇതിനെ വേ മെർജ് എന്ന് വിളിക്കുന്നു അതിനാൽ ഈ അൽഗോരിതം ചെയ്യുന്നത് അത് റൺസിന്റെ ആദ്യ ബ്ലോക്ക് റീഡ് ചെയ്യുന്നു തുടർന്ന് അത് ബ്ലോക്കുകളിൽ നിന്ന് ബഫർ ബ്ലോക്കുകളിലേക്കുള്ള ഏറ്റവും മികച്ചതായ ആദ്യ റെക്കോർഡ് ഔട്ട്പുട്ട് നൽകുന്നു അതിനാൽ അവിടെ ഒരു ബഫർ ബ്ലോക്ക് ഉണ്ട് അതുകൊണ്ടാണ് ഈ നിങ്ങൾക്ക് കാണാനാകുന്നത് ഇതൊരു ബഫർ ബ്ലോക്കാണ് അതാണ് ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് അതിനാൽ അതാണ് ടെസ്റ്റ് ചെയ്യപ്പെടുന്ന ബഫർ ബ്ലോക്ക് ബ്ലോക്കുകൾ റീഡും സോർട്ടും ചെയ്യപ്പെടുന്നു ബഫർ ബ്ലോക്ക് ചെയ്തുകഴിഞ്ഞാൽ ബഫർ ബ്ലോക്ക് നിറയുന്നത് വരെ തുടരുക തുടർന്ന് ബഫർ ബ്ലോക്ക് ഡിസ്കിലേക്ക് ഔട്ട്പുട്ട് ചെയ്യുക ഇതിനുശേഷം ഒരു പുതിയ ബഫർ ബ്ലോക്ക് ചെയ്യുന്നു അങ്ങനെ അങ്ങനെ ഇത് എക്സ്ഹോസ്റ്റ് ആവുന്നത് വരെ ഒരു റണ്ണിന്റെ ബ്ലോക്ക് എക്സ്ഹോസ്റ്റ് ആയാൽ ആ റണ്ണിന്റെ അടുത്ത ബ്ലോക്ക് റീഡ് ചെയ്യുന്നു ഇത് തുടരുന്നു അതിനാൽ ഇവ രണ്ടാം മെർജിൽ പൂർത്തിയായെന്നു വരില്ല കാരണം റൺസ് മതിയായെന്നു വരില്ല ആദ്യ ഘട്ടത്തിൽ ബ്ലോക്കുകളേക്കാൾ കൂടുതൽ ഉല്പാദിപ്പിച്ചിരിക്കാം അതിനാൽ ഇത് തുടരുകയും ഒടുവിൽ ഔട്ട്പുട്ട് ലഭിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ ഓർക്കേണ്ട ഒരു പ്രധാന കാര്യം ഒന്നിലധികം തവണ പാസ് ചെയ്യാം അതിനാൽ ഇത് പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഓരോ പാസിനുശേഷവും ഇൻപുട്ടിന്റെ ചില ഭാഗം പ്രോസസ്സ് ചെയ്യുകയും ഔട്ട്പുട്ട് അതുവരെ സോർട് ചെയ്യുകയും ചെയ്യുന്നു എന്നതാണ് അതിനാൽ എക്സ്ടെർണൽ സോർട്ട് മെർജ് അൽഗോരിതം കൂടുതൽ വിശദമായി മനസ്സിലാക്കാൻ നമുക്ക് ഒരു ഉദാഹരണം എടുക്കാം അതിനാൽ ഇവിടെ ഒരു ഉദാഹരണം ഉണ്ട് ഇവിടെ ആണ് അതിനാൽ ഒരു സമയം മൂന്ന് ബ്ലോക്കുകൾ മാത്രമേ ഉൾക്കൊള്ളാൻ കഴിയൂ ഇതാണ് നമുക്ക് ക്രമീകരിക്കേണ്ട ഡാറ്റ അതിനാൽ 18 11 16 എന്നിവ ആദ്യ പാസിൽ മൂന്നു കാര്യങ്ങൾ മെമ്മറിയിലേക്ക് ഇൻപുട്ട് ചെയ്യും അതിനാൽ 18 11 16 എന്നിവ മെമ്മറിയിലേക്ക് ഇൻപുട്ട് ചെയ്യും കൂടാതെ തീർച്ചയായും സോർട് ചെയ്യപ്പെടുന്നതാണ് അപ്പോൾ ഔട്ട്പുട്ട് ആയി വരുന്നത് 11 16 18 എന്നിവ ആണ് ഇപ്പോൾ സമാനമായി കൂടുതൽ റൺസ് സൃഷ്ടിക്കുകയും ഔട്ട്പുട്ടുകൾ തിരികെ ഡിസ്കിലേക്കു റൈറ്റ് ചെയ്യുകയും ചെയ്യുന്നു ഇവയാണ് ആദ്യ റണ്ണിന് ശേഷം സൃഷ്ടിക്കപ്പെടുന്ന ഔട്ട്പുട്ടുകൾ ഇപ്പോൾ ചില സന്ദർഭങ്ങളിൽ അവസാന ബ്ലോക്ക് പകുതി നിറഞ്ഞിട്ടുണ്ടാകാം പക്ഷേ അത് പ്രശ്നമല്ല ആകെ ചെയ്യേണ്ടത് അത് ഒരു സോർട്ടഡ് റണ്ണിൽ ഇടുക എന്നതാണ് അതിനാൽ ഇപ്പോൾ ഇവ ഓരോന്നും സോർട്ടഡ് റൺ ആണെന്ന് ശ്രദ്ധിക്കുക ഇപ്പോൾ അടുത്തതായി ഇനിപ്പറയുന്നവ ചെയ്യാൻ ശ്രമിക്കുക എന്നതായിരിക്കും ആയതിനാൽ ആദ്യ രണ്ട് ബ്ലോക്കുകൾ ആദ്യ സോർട്ടഡ് റൺ മെമ്മറിയിലേക്ക് കൊണ്ടുവരും ഇപ്പോൾ എല്ലാം മെമ്മറിയിലേക്ക് കൊണ്ടുവരികയില്ല ആദ്യത്തെ ബ്ലോക്കുകൾ മാത്രമേ മെമ്മറിയിലേക്ക് കൊണ്ടുവരികയുള്ളൂ അതിനാൽ ഒരു മെമ്മറിയിൽ 11 ഉം 12 ഉം ആയിരിക്കും ഉണ്ടാവുക ശേഷം ഒരു ബഫർ ബ്ലോക്ക് സൃഷ്ടിക്കപ്പെടുന്നു ബഫർ ബ്ലോക്ക് അടിസ്ഥാനപരമായി ഇവയിൽ ഏറ്റവും കുറഞ്ഞത് ഔട്ട്പുട്ട് ചെയ്യുന്നു അഥവാ ഈ 11 12 അതിനാൽ 11 ഔട്ട്പുട്ട് ആയിരിക്കും അത് ബഫർ ബ്ലോക്കിലേക്കു റീഡ് ചെയ്യപ്പെടുന്നു ഓരോ ബഫർ ബ്ലോക്കിനും മൂന്നു വാല്യൂസ് വരെ നിലനിർത്താനാകുമെന്നത് ശ്രദ്ധിക്കുക അതിനാൽ 11 സൃഷ്ടിക്കപ്പെടും ഇപ്പോൾ 11 ഔട്ട്പുട്ട് ആകുമ്പോൾ 11 ഉണ്ടായിരുന്ന ഈ ബ്ലോക്കിൽ അഥവാ 11 ഉണ്ടായിരുന്ന ഇവയിൽ നിന്ന് അടുത്തത് റൺ ചെയ്യും തുടർന്ന് അടുത്ത ബ്ലോക്ക് റീഡ് ചെയ്യുന്നു അതായത് 16 മെമ്മറിയിലേക്കു കൊണ്ടുവരും ഇപ്പോൾ അടുത്ത താരതമ്യം 16 നും 12 നും ഇടയിലായിരിക്കും 12 ആയിരിക്കും ഔട്ട്പുട്ട് ഒരിക്കൽ 12 ഔട്ട്പുട്ട് ആയാൽ 13 മെമ്മറിയിലേക്ക് കൊണ്ടുവരും അപ്പോൾ ഇവയിൽ നിന്ന് 13 സൃഷ്ടിക്കപ്പെടും സോർട്ടിംഗ് കഴിഞ്ഞാൽ 17 മെമ്മറിയിലേക്ക് കൊണ്ടുവരും കൂടുതൽ പ്രധാനമായി എന്താണ് സംഭവിക്കുന്നത് എന്നാൽ ഈ ഫൈൻഡിങ് ടൈമിൽ ബഫർ ബ്ലോക്ക് നിറഞ്ഞിരിക്കും കാരണം നിങ്ങൾക്ക് ഈ മൂന്ന് കാര്യങ്ങളുമായി ബന്ധപ്പെടാം കൂടാതെ അത് ചെയ്തുകഴിഞ്ഞു അതിനാൽ ഇവ ഡിസ്കിലേക്ക് തിരികെ റൈറ്റ് ചെയ്യുകയും ബഫർ ശൂന്യമാക്കുകയും ചെയ്യും അതിനാൽ ഇപ്പോൾ ബഫർ ബ്ലോക്കിന് മറ്റ് വാല്യൂസിൽ നിന്ന് ഉൾകൊള്ളാൻ കഴിയും അതിനാൽ ഇത് ഡിസ്കിലേക്ക് തിരികെ റൈറ്റ് ചെയ്യുന്നു പിന്നെ 16 17 ൽ നിന്ന് അതേ പ്രക്രിയ തുടരുന്നു അതിനാൽ 16 17 എന്നിവയിൽ നിന്ന് 16 ആകും തുടർന്ന് ബഫർ ബ്ലോക്കിൽ ഇടുക തുടർന്ന് 16 ന് ശേഷം 18 കൊണ്ടുവരും പിന്നീട് 17 ഔട്ട്പുട്ട് ആകും 17 മായ്ച്ചുകഴിഞ്ഞാൽ അവിടെ ബ്ലോക്കുകളിൽ ഇനി ഒന്നും ബാക്കിയില്ല അതിനാൽ മറ്റൊന്നും കൊണ്ടുവരുന്നില്ല അതിനുശേഷം 18 പൂർത്തിയായി അതിനാൽ 18 ഉം മായ്ക്കും അതിനാൽ ഇത് 16 17 18 എന്നിങ്ങനെ നിർമ്മിക്കും ഇപ്പോൾ ഈ രണ്ടും അതേ രീതിയിൽ സോർട് ചെയ്യപ്പെടും ഇവിടെ നിർമ്മിക്കുന്നത് നമുക്ക് അത് 14 15 19 20 21 എന്നിങ്ങനെ എഴുതാം അടുത്ത ഘട്ടത്തിൽ രണ്ട് ബ്ലോക്കുകൾ മാത്രമാണ് ഇപ്പോൾ ബാക്കിയുള്ളത് അതിനാൽ ഇവ രണ്ടും സോർട് ചെയ്യുകയും മൊത്തം സോർട്ടഡ് ഓർഡർ 11 12 13 14 15 16 17 18 19 20 21 എന്നിങ്ങനെ നിർമ്മിക്കുകയും ചെയ്യും അതാണ് ചെയ്യുന്നത് അതിനാൽ ഇത് മെർജ് സോർട് പ്രൊസീജർ പിന്തുടരുന്നതായി നിങ്ങൾക്ക് കാണാൻ കഴിയും എന്നാൽ കണക്കിലെടുക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ട് ഒരു സമയം മൂന്ന് കാര്യങ്ങൾ മാത്രമേ ബിഗർ ദാനിനായി എടുക്കാൻ കഴിയൂ കാരണം അതാണ് മെമ്മറി ശേഷിയും ബഫർ ബ്ലോക്കിലും ഉപയോഗിക്കുന്നത് ഇതാണ് എക്സ്ടെർണൽ മെർജ് സോർട്ട് അൽഗോരിതം ഇങ്ങനെയാണ് കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഇപ്പോൾ ശ്രദ്ധിക്കുക ഈ ഉദാഹരണത്തിൽ രണ്ട് പാസുകൾ പര്യാപ്തമല്ലാത്തപ്പോൾ അതിന് മൂന്ന് പാസുകൾ ആവശ്യമാണ് കാരണം രണ്ടാമത്തെ പാസിൽ പോലും അവയ്ക്ക് മതിയായ ഇടമില്ല ആദ്യ പാസ് എല്ലായ്പ്പോഴും സോർട്ടഡ് റൺസ് സൃഷ്ടിക്കുന്നതിന് തുല്യമാണ് അതിനുശേഷം അവയ്ക്ക് നിരവധി പാസുകൾ ആവശ്യമായിരിക്കാം ഇപ്പോൾ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം ഈ അൽഗോരിതങ്ങൾ വിശകലനം ചെയ്യുക എന്നതാണ് അതിനാൽ ഈ എക്സ്ടെർണൽ മെർജ് സോർട്ട്സിന്റെ കോസ്റ്റ് നമ്മൾ എങ്ങനെ വിശകലനം ചെയ്യും അതിനാൽ ഈ എക്സ്ടെർണൽ മെർജ് സോർട്ട്സിന്റെ കോസ്റ്റ് ഇനിപ്പറയുന്ന രീതിയിൽ ചെയ്യുന്നു റിലേഷനിൽ ബ്ലോക്കുകൾ അടങ്ങിയിരിക്കുന്നു എന്ന് കരുതുക മെമ്മറിയിൽ ബ്ലോക്കുകൾ മാത്രമേ ഉൾകൊള്ളാൻ കഴിയൂ തീർച്ചയായും ആണ് അങ്ങനെ ഉത്പാദിപ്പിക്കപ്പെട്ട സോർട്ടഡ് റണ്ണുകളുടെ മൊത്തം എണ്ണം ആദ്യത്തേത് സോർട്ടഡ് റണ്ണുകളുടെ എണ്ണമാണ് അത് ആണ് ഇപ്പോൾ ഓരോ മെർജ് പാസ്സിലും റൺസ് സോർട് ചെയ്യുന്നു അതിനാൽ ആവശ്യമായ മൊത്തം മെർജ് പാസ്സുകളുടെ എണ്ണം ആണ് അതിനാൽ ഇതാണ് കാര്യം ആവശ്യമായ കാര്യങ്ങളുടെ ആകെ എണ്ണം ഇനിപറയുന്നതാണ് ആവശ്യമായ മെർജ് പാസ്സുകളുടെ ആകെ എണ്ണം ആണ് ഇവയിൽ മൊത്തം സോർട്ടഡ് റണ്ണുകളുടെ എണ്ണം ഇപ്പോൾ ഈ ഓരോ മെർജ് പാസ്സുകളിലും ആദ്യ പാസ് എല്ലാ ബ്ലോക്കുകളും റീഡ് ചെയ്യുകയും റൈറ്റ് ചെയ്യുകയും ചെയ്യുന്ന രണ്ട് പ്രധാനപ്പെട്ട പാസുകളാണിത് അതിനാൽ ബ്ലോക്ക് ട്രാൻസ്ഫറുകളുടെ ആകെ എണ്ണം എന്നത് അതിനാൽ എല്ലാ ബ്ലോക്കുകളുടെയും എണ്ണം റീഡ് ചെയ്താൽ അതായത് കൂടാതെ എല്ലാ ബ്ലോക്കുകളും വീണ്ടും റൈറ്റ് ചെയ്തിരിക്കുന്നു അത് വീണ്ടും തന്നെയാണ് അതിനാൽ മൊത്തം ട്രാൻസ്ഫെറുകളുടെ എണ്ണം ലളിതമായി ആണ് ആദ്യ പാസ്സിന് ഈ മുഴുവൻ സംഖ്യയും 1 ഉം അതിനാൽ നമ്മൾ ഇത് സ്മാൾ ആണെന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഇത് ആണ് അതിനാൽ അതാണ് ഇത് മനസ്സിലാക്കാൻ ആവശ്യമായ ആകെ ട്രാൻസ്ഫറുകളുടെ എണ്ണം അതിനാൽ ഇപ്പോൾ മൊത്തം സീക്കുകളുടെ എണ്ണം എത്രയാണ് അതിനാൽ മൊത്തം സീക്കുകളുടെ എണ്ണം നമ്മൾ എങ്ങനെയാണ് കണക്കാക്കുക എന്നാൽ അത് ആണ് കൂടാതെ എല്ലാ ബ്ലോക്കുകളും വീണ്ടും റൈറ്റ് ചെയ്തിരിക്കുന്നു അത് വീണ്ടും തന്നെയാണ് അതിനാൽ ഇനിഷ്യൽ സോർട്ടഡ് റൺ ഈ ബ്ലോക്കുകളെല്ലാം റീഡ് ചെയ്യുന്നു കൂടാതെ അവിടെ ഒരു സീക് മാത്രമേയുള്ളൂ അതിനാൽ മൊത്തം സീക്കുകളുടെ എണ്ണം ആണ് കാരണം ഓരോ തവണയും സോർട്ടഡ് റണ്ണുകളുടെ ആകെ എണ്ണം ഓരോ തവണയും ആദ്യ റൺ ഡാറ്റയുടെ ഒരു ഭാഗം റീഡ് ചെയ്യുകയും പിന്നെ റൈറ്റ് ചെയ്യുകയും ചെയ്യുന്നു എന്നതാണ് അതിനാൽ ഓരോ റീഡിങ്ങിനും സോർട്ടഡ് റണ്ണിന് ഒരു സീക് ആവശ്യമാണ് തുടർന്ന് അത് തിരികെ റൈറ്റ് ചെയ്യാൻ മറ്റൊരു സീക് ആവശ്യമാണ് അതിനാൽ അത് സോർട്ടഡ് റണ്ണുകളുടെ ഇരട്ടി എണ്ണമാണ് അടിസ്ഥാനപരമായി ഉപയോഗിക്കുന്നു അതാണ് ആദ്യ പാസിനുള്ള കാര്യങ്ങളുടെ എണ്ണം ഇത് ആദ്യ പാസിന് മാത്രമുള്ളതാണ് ഇപ്പോൾ മെർജ് പാസ് സമയത്ത് ഇതാണ് ആദ്യ സോർട്ടഡ് റൺ എന്ന് ചിന്തിക്കുക അതിനാൽ ഓരോ മെർജ് പസ്സിനും ചെയ്യുന്നത് എന്താണെന്നാൽ വ്യത്യസ്ത റണ്ണുകളിൽ നിന്നുള്ള ബ്ലോക്കുകൾ ഒരു റീഡ് ആയിരിക്കാം എന്നതാണ് അതിനാൽ ആദ്യം ഒരു ബ്ലോക്ക് റീഡ് ചെയ്തു അതിനാൽ ഒന്നിലധികം ബ്ലോക്കുകൾ ഉണ്ട് എന്ന് സങ്കല്പിക്കുക ഇത് ഒരു ബ്ലോക്ക് ആണ് ഇത് ഒരു ബ്ലോക്ക് ആണ് അതിനാൽ ആദ്യം ഈ ബ്ലോക്ക് റീഡ് ചെയ്യപ്പെടുന്നു തുടർന്ന് അടുത്ത ബ്ലോക്ക് റീഡ് ചെയ്തേക്കാം തുടർന്ന് അടുത്ത ബ്ലോക്ക് റീഡ് ചെയ്തേക്കാം അങ്ങനെ തുടരുന്നു അതിനാൽ ഇതിന്റെ എണ്ണം ഏറ്റവും മോശം കേസ് ആണ് അതായത് ഓരോ തവണയും ബഫർ ബ്ലോക്കിലേക്ക് എന്തെങ്കിലും ഔട്ട്പുട്ട് ചെയ്യുമ്പോൾ മറ്റൊരു ബ്ലോക്ക് റീഡ് ചെയ്യപ്പെടുന്നു അതിനാൽ സീക്കുകളുടെ എണ്ണം അടിസ്ഥാനപരമായി ഒരു ബ്ലോക്കിൽ നിന്ന് മറ്റൊന്നിലേക്ക് പകർത്തുക മാത്രമാണ് ഒരു റണ്ണിൽ നിന്ന് മറ്റൊന്നിലേക്ക് അതിനാൽ ധാരാളം സീക്കുകൾ ഉണ്ടാകാം അതിനാൽ സീക്കുകളുടെ എണ്ണം പ്രധാനമായും ഇവയിൽ ഓരോന്നിനും വീണ്ടും ഉണ്ടാകാം അതിനാൽ ഓരോ ബ്ലോക്കിനും റീഡ് ചെയ്യേണ്ടതും റിട്ടേൺ ചെയ്യേണ്ടതും ആവശ്യമായി വരാം ഈ ബ്ലോക്കുകളിൽ ഓരോന്നിനും റീഡ് ചെയ്യാൻ സീക്കുകളും ഔട്ട്പുട്ട് ചെയ്യാൻ സീക്കുകളും ഉണ്ട് കാരണം ഈ ബ്ലോക്കുകളിൽ ഓരോന്നിനും വീണ്ടും അത് മറ്റ് ചില കാര്യങ്ങളിലും മറ്റും പ്രതീക്ഷിക്കുന്നു അങ്ങനെ തുടരുന്നു അതിനാൽ ഈ ഓരോ b ക്കും ഒരു ജമ്പ് ഉണ്ട് അതിനാൽ മെർജ് ഫേസിനായി സീക്കുകൾ ഉണ്ട് അതിനാൽ അവിടെയുള്ള മൊത്തം മെർജുകളുടെ എണ്ണം ആണ് ആണ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത് അതിനാൽ സീക്കുകളുടെ ആകെ എണ്ണം അടിസ്ഥാനപരമായി മുഴുവൻ അൽഗോരിതത്തിലെ സീക്കുകളുടെ ആകെ എണ്ണം ലളിതമായി ആണ് അതിനാൽ സീക്കുകളുടെ എണ്ണം ഏറ്റവും മോശമായ കേസ് ഇതാവാം അതിനാൽ മൊത്തം ട്രാൻസ്ഫെറുകളുടെ എണ്ണം ആണ് കൂടാതെ മൊത്തം സീക്കുകളുടെ എണ്ണം ആണ് തീർച്ചയായും ഇതാണ് മെർജ് സോർട് പ്ലാനിന്റെ വേഴ്സ്റ്റ് കേസ് അനാലിസിസ് അത് മോശമാകാം പക്ഷേ പൊതുവേ അത് അതിനെക്കാൾ കുറവാണ് കാരണം നമ്മൾ ഓരോ ബ്ലോക്കുകളും ജമ്പ് ചെയ്യുന്നത് സീക് ആണെന്നുള്ളത് വേഴ്സ്റ്റ് കേസ് ആയി അനുമാനിക്കുന്നു